ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ക്ലാസിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഈ പ്രഭാഷണത്തിൽ നമ്മൾ സംസാരിക്കുന്നത് സ്ട്രാറ്റജിക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിനെക്കുറിച്ചാണ് അതിനാൽ നമുക്ക് അത് ആരംഭിക്കാം ചില സ്രോതസ്സുകൾ ഈ പ്രത്യേക പ്രഭാഷണത്തിനായി ഞാൻ നിരവധി ഗവേഷണ പ്രബന്ധങ്ങൾ പരാമർശിച്ചിട്ടുണ്ട് കൂടാതെ വിശദാംശങ്ങൾ സ്ലൈഡിലുണ്ട് നിങ്ങൾക്ക് സ്ലൈഡുകൾ കാണാം തീർച്ചയായും ഞാൻ ഗോമസ് മെജിയ ബാൽകിൻ കാർഡി Gomez Mejia Balkin and Cardy എന്നിവരുടെ പുസ്തകം പരാമർശിച്ചിട്ടുണ്ട് കൂടാതെ ഷുലറും ജാക്സണും എഴുതിയ പുസ്തകം ക്ഷമിക്കണം ഷുലറും ജാക്സണും എഴുതിയ ഒരു പേപ്പർ ഉണ്ട് കൂടാതെ ഗിൽമോറും വില്യംസും എഴുതിയ പുസ്തകത്തിലെ ഒരു പേപ്പറും ഞാൻ ഇതിൽ പരാമർശിച്ചിട്ടുണ്ട് അതിനാൽ ഞാൻ പരാമർശിച്ച എല്ലാ സ്രോതസ്സുകളും നിങ്ങൾക്ക് ലഭിക്കുന്ന ആദ്യ സ്ലൈഡിൽ ഉണ്ട് എന്താണ് സ്ട്രാറ്റജിക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് സ്ട്രാറ്റജിക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്ന് വിവിധ നിർവചനങ്ങൾ ഉണ്ട് ആസൂത്രിതമായ മനുഷ്യ വിഭവ വിന്യാസത്തിന്റെ പാറ്റേണിലാണ് ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇവിടെ അവസാനത്തേത് ഒരു ഓർഗനൈസേഷനെ അതിന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് പ്രാപ്തമാക്കാൻ ഉദ്ദേശിച്ചുള്ള ആസൂത്രിത മനുഷ്യവിഭവ വിന്യാസങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും മാതൃക അത് ഒരു സ്ഥാപനത്തിന്റെ മാനേജ്മെന്റ് അല്ലാതെ മറ്റൊന്നുമല്ല ആദ്യത്തെ പോയിന്റ് വിശദീകരണമാണ് സ്ട്രാറ്റജിക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നത് സ്ഥാപനത്തിന്റെ തന്ത്രപരമായ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സ്ഥാപനത്തിന്റെ മാനവ വിഭവശേഷി മാനേജ്മെന്റിനെ സൂചിപ്പിക്കുന്നു ഈ നിർവചനങ്ങളെല്ലാം ഒരുപാട് വിശദാംശങ്ങൾ ഉൾക്കൊള്ളുന്നു എന്നാൽ വളരെ ലളിതമായി പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷന്റെ തന്ത്രപരമായ ലക്ഷ്യങ്ങളുടെ നേട്ടത്തിനായി അതിന്റെ മനുഷ്യവിഭവശേഷി ഏറ്റവും ഉചിതമായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിനെ തന്ത്രപരമായ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നു അതിനാൽ ഓർഗനൈസേഷനെ അതിന്റെ വികസനത്തിനായി 10 15 20 30 40 വർഷം കാലയളവിലേക്ക് തയാറാക്കിയിരിക്കുന്ന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനു വേണ്ടി സഹായിക്കുന്നതിന് ആളുകളെ കൊണ്ട് എങ്ങനെ അവർ ചെയ്യേണ്ടത് ചെയ്യിക്കും എന്തുകൊണ്ട് തന്ത്രപരമായ മാനേജ്മെന്റ് തന്ത്രപരമായ മാനേജ്മെന്റിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന്റെ കാരണം എന്താണ് അല്ലെങ്കിൽ തന്ത്രപരമായി ആസൂത്രണം ചെയ്യാൻ നമുക്ക് മനുഷ്യവിഭവശേഷിയും ആവശ്യമായി വരുന്നത് എന്തുകൊണ്ടാണ് മത്സരാധിഷ്ഠിത നേട്ടം കൈവരിക്കുന്നതിന് ഒരു സ്ഥാപനത്തെ ചെലവ് കുറച്ച് സഹായിക്കുന്നതാണോ അതോ ഉൽപ്പന്ന സ്രോതസ്സുകളും സേവന വ്യത്യാസങ്ങളും വർധിപ്പിച്ചു കൊണ്ടാണോ അല്ലെങ്കിൽ രണ്ടുമാണോ പ്രസ്താവനകൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് മത്സരാധിഷ്ഠിത നേട്ടം എന്നതിനർത്ഥം വ്യവസായത്തിൽ എതിരാളികളേക്കാൾ ഒരു നേട്ടം ഉണ്ടായിരിക്കുക എന്നാണ് ഇപ്പോൾ നമ്മൾ എതിരാളികളെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ വാഗ്ദാനം ചെയ്യുന്ന അതേ ഉൽപ്പന്നം അല്ലെങ്കിൽ സമാനമായ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും വാഗ്ദാനം ചെയ്യുന്ന മറ്റ് ആളുകളെ മറ്റ് ഓർഗനൈസേഷനുകളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് നമ്മൾ വിൽക്കുന്നത് അല്ലെങ്കിൽ സമാനമായ എന്തെങ്കിലും ആരാണ് വിൽക്കുന്നത് മത്സരാധിഷ്ഠിത നേട്ടത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അവരെ മറികടക്കുന്നതിനെക്കുറിച്ചല്ല നമ്മൾ സംസാരിക്കുന്നത് നമ്മൾക്ക് നൽകാൻ കഴിയുന്നതും അവർക്കില്ലാത്തതുമായ ഏതിനെയെങ്കിലും കുറിച്ചാണ് അത് അവർ നൽകുന്നതിനുമേൽ നമുക്ക് ഒരു മുൻതൂക്കം നൽകുന്നു മറ്റുള്ളവർക്ക് ഇല്ലാത്തത് എന്താണ് നമുക്ക് ഉള്ളത് ഇക്കാരണത്താൽ നമ്മുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നവർ നമ്മുടെ ക്ലയന്റുകൾ അവരെക്കാൾ നമ്മളെ ഇഷ്ടപ്പെടുന്നു എനിക്ക് എന്താണ് ഉള്ളത് ഞാൻ വാഗ്ദാനം ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും ശ്രേണിയിൽ വളരെ അദ്വിതീയമായത് എന്താണ് മറ്റുള്ളവരെക്കാൾ ഒരു നേട്ടം നേടുന്നതിന് അത് എന്നെ സഹായിക്കുന്നു എനിക്ക് എന്താണ് ഉള്ളത് എന്ത് അധിക ആനുകൂല്യമാണ് എനിക്ക് എന്റെ ഉപഭോക്താക്കൾക്ക് നൽകാൻ കഴിയുന്നത് അതാണ് നമ്മൾ മത്സര നേട്ടം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൂടാതെ ഗെയിമിന് മുന്നിൽ നിൽക്കാൻ എനിക്കുള്ളത് എനിക്ക് വളരെക്കാലം നിലനിർത്താൻ കഴിയുന്ന വെറുമൊരു കാര്യമല്ല ഇത് മത്സരാധിഷ്ഠിത നേട്ടം കൈവരിക്കുന്നതിന് നമ്മൾക്ക് ചില തന്ത്രങ്ങളുണ്ട് നമ്മളുടെ എതിരാളികളേക്കാൾ മുന്നിൽ നിൽക്കാൻ നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം തന്ത്രപരമായ ഒരു സംരംഭം എന്നതാണ് തന്ത്രപരമായ സംരംഭം എന്നാൽ മറ്റൊന്നുമല്ല ഒരു സ്ഥാപനം മത്സരിക്കുന്ന വ്യവസായങ്ങളിൽ തന്ത്രപരമായ പെരുമാറ്റത്തിന്റെ നിയന്ത്രണം പിടിച്ചെടുക്കാനുള്ള കഴിവാണ് തന്ത്രപരമായ സംരംഭം എന്നാൽ കളി മാറ്റുന്നതിനായി എന്തെങ്കിലും അധികം ചെയ്യുന്നതിനെയാണ് പറയുന്നത് നമ്മൾ എന്താണ് ചെയ്യുന്നത് അത് മറ്റുള്ളവരെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എന്തെങ്കിലും ചെയ്യുന്നു അതിനാൽ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി എന്റെ ക്ലയന്റുകൾക്ക് കൂടുതൽ പ്രയോജനകരവും മറ്റുള്ളവർ പിന്തുടരാൻ പ്രേരിപ്പിക്കുന്നതുമായ എന്തെങ്കിലും ഞാൻ ചെയ്യുന്നു ഉദാഹരണത്തിന് ഞങ്ങൾ വളർന്നുവരുമ്പോൾ വിൽപ്പനാനന്തര സേവനം എന്ന ആശയം വളരെ പ്രചാരത്തിലില്ല അതിനാൽ നിങ്ങൾ ഒരു വിൽപ്പനക്കാരനിൽ നിന്ന് ഒരു വാഷിംഗ് മെഷീൻ വാങ്ങി പിന്നെ വാഷിംഗ് മെഷീന് എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ പിന്നീട് അത് ശരിയാക്കാൻ നിങ്ങൾ മറ്റൊരാളുടെ അടുത്തേക്ക് പോകും ഞാൻ വാഷിംഗ് മെഷീൻ വിൽക്കുകയാണെങ്കിൽ നിങ്ങൾ അത് വാങ്ങുവാൻ ആ വാഷിംഗ് മെഷീന് വില്പനയ്ക്ക് ശേഷം ആ സേവനവും വിൽക്കാം എന്ന് ആരോ എവിടെയോ തീരുമാനിച്ചു ഒരു ബ്രാൻഡിന്റെയും പേര് ഞാൻ എടുത്തുപറയുന്നില്ല പക്ഷേ ആരോ തീരുമാനിച്ചു ഒരു കട വാഷിംഗ് മെഷീൻ വിൽക്കുന്നു എന്നാൽ വിൽപ്പന സമയത്ത് തകരാറുള്ളതോ അല്ലെങ്കിൽ വിൽപ്പനയ്ക്ക് ശേഷമോ ഉപയോഗത്തിന് ശേഷമോ പ്രശ്നങ്ങളുള്ള വാഷിംഗ് മെഷീനുകൾ നന്നാക്കുന്നതിൽ പരിശീലനം ലഭിച്ചവരും ആയ ആളുകളും കടയിലുണ്ട് അതിനാൽ അവർ സാക്ഷ്യപ്പെടുത്തിയ അല്ലെങ്കിൽ അംഗീകൃത സേവന ഏജന്റുമാരുമായി വരാൻ തുടങ്ങി തങ്ങളുടെ ക്ലയന്റുകളെ നിലനിർത്താൻ അവർക്ക് ഉപയോഗിക്കാവുന്ന ഒരു തന്ത്രമാണിതെന്ന് ആരോ തീരുമാനിച്ചു ഞങ്ങൾ വളർന്നപ്പോൾ വാഷിംഗ് മെഷീൻ ഒരു ആഡംബരമായിരുന്നു നിങ്ങൾക്കറിയാമോ നിങ്ങൾ ഒരു വാഷിംഗ് മെഷീൻ വാങ്ങി അത് നന്നായി സൂക്ഷിച്ചാൽ നിങ്ങൾ ഒരിക്കലും അടുത്ത 10 15 20 വർഷത്തേക്ക് മറ്റൊന്ന് വാങ്ങേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല പക്ഷേ സംഭവിച്ചത് കുറച്ച് കാലത്തേക്ക് വാഷിംഗ് മെഷീൻ ഉപയോഗിച്ചതിന് ശേഷം ഞങ്ങളുടെ അയൽക്കാരോടും സുഹൃത്തുക്കളോടും ഞങ്ങളുടെ കുടുംബാംഗങ്ങളോടും ഈ ബ്രാൻഡ് എനിക്ക് നന്നായി പ്രവർത്തിച്ചു അതിനാൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇത് വാങ്ങിക്കൂടാ എന്ന് പറയേണ്ട അവസ്ഥയിലായിരുന്നു അതിനാൽ വാക്ക് സിദ്ധാന്തം ആ സമയത്ത് പ്രവർത്തനത്തിലായിരുന്നു അതിനാൽ തന്ത്രപരമായ സംരംഭത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ സംസാരിക്കുന്നത് മറ്റുള്ളവർ ചെയ്യാത്ത ഒരു പെരുമാറ്റം ഒരു പാറ്റേൺ മുതലായ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഒരു കമ്പനി സർവീസ് നൽകാൻ പോകുന്നുവെന്ന് തീരുമാനിച്ചു നിങ്ങൾ ഈ വാഷിംഗ് മെഷീൻ വാങ്ങുകയാണെങ്കിൽ ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്നുള്ള ആരെങ്കിലും വന്ന് ഒരു വർഷത്തേക്കോ രണ്ട് വർഷത്തേക്കോ സൌജന്യമായി അത് നന്നാക്കും കൂടാതെ അധിക ഭാഗങ്ങൾക്ക് മാത്രം നിങ്ങളിൽ നിന്ന് നിരക്ക് ഈടാക്കും അത് ആവശ്യമായി വന്നേക്കാം അതിനാൽ ഇതൊരു തന്ത്രപരമായ സംരംഭമാണ് തുടർന്ന് ബാക്കിയുള്ളവർ പിന്തുടരാൻ നിർബന്ധിതരായി തീരുന്നു പിന്നെ അവർ പറഞ്ഞു ശരി ബ്രാൻഡ് എ അത് ചെയ്യുന്നു എന്തുകൊണ്ട് നമ്മുക്ക് അത് ചെയ്യാൻ കഴിയില്ല തുടർന്ന് ബി ബ്രാൻഡ് അത് പിന്തുടർന്നു തുടർന്ന് ബ്രാൻഡ് സി അത് പിന്തുടർന്നു പിന്നെ പതുക്കെ അത് വ്യവസായത്തിന്റെ മാനദണ്ഡമായി മാറി മത്സരാധിഷ്ഠിത തന്ത്രങ്ങൾ മത്സര നേട്ടങ്ങൾ നേടിയെടുക്കാൻ ഉപയോഗിക്കാം ഇന്നൊവേഷൻ സ്ട്രാറ്റജി എതിരാളികളിൽ നിന്ന് വ്യത്യസ്തമായ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ സേവനങ്ങൾ വികസിപ്പിക്കാൻ ഉപയോഗിക്കുന്നു അതിനാൽ ഞങ്ങൾ വളർന്നുവന്നപ്പോൾ ഇപ്പോൾ നമുക്ക് ഒരു വാഷിംഗ് മെഷീന്റെ ഉദാഹരണത്തിൽ ഉറച്ചുനിൽക്കാം ഞങ്ങൾക്ക് ഒരു വാഷിംഗ് മെഷീൻ ഉണ്ടായിരുന്നു ആ യന്ത്രത്തിൽ വസ്ത്രങ്ങൾ അലക്കുന്നു എന്നിട്ട് നിങ്ങൾ വസ്ത്രങ്ങൾ പുറത്തെടുക്കും എന്നിട്ട് നിങ്ങൾ അവയെ ഉണങ്ങാൻ തൂക്കിയിടും പിന്നെ ഒരു ഡ്രയർ എന്ന ആശയം ഉണ്ടായിരുന്നു അതിനാൽ നിങ്ങൾക്ക് ഒരു വാഷിംഗ് മെഷീനും ഒരു ഡ്രയറും ഉണ്ടായിരുന്നു രണ്ട് വിത്യസ്ത ഡ്രമ്മുകൾ അവ സ്ഥാപിക്കാൻ നിങ്ങൾ വ്യത്യസ്ത സ്ഥലങ്ങൾ കണ്ടെത്തും അപ്പോൾ ആരോ പറഞ്ഞു ഒരുപക്ഷേ നമുക്ക് ഒരു സെമിഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ഉണ്ടാക്കാം അതിനാൽ നിങ്ങൾ തുണികൾ ഒന്നിൽ കഴുകണം എന്നിട്ട് നിങ്ങൾ അവയെ ഉണങ്ങാൻ മറ്റേ കമ്പാർട്ടുമെന്റിൽ ഇടും കൂടാതെ ഈ ഡ്രംസ് ഒരുമിച്ചായിരുന്നു അതിനാൽ രണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളിൽ രണ്ട് കറങ്ങുന്ന ഡ്രമ്മുകൾ അതായത് രണ്ട് പ്രത്യേക പ്ലഗുകൾ ആവശ്യമായ രണ്ട് വ്യത്യസ്ത മെഷീനുകൾക്ക് പകരം ആരോ ചില പുതുമകൾ കൊണ്ടുവന്നു രണ്ട് ഡ്രമ്മുകളും ഒരേ ഫ്രെയിമിൽ വയ്ക്കാൻ തീരുമാനിച്ചു ഒരേ പ്ലഗ് ഉണ്ടായിരിക്കണം ഒരു പവർ സ്രോതസ്സ് ഇവ രണ്ടും ഒരുമിച്ച് പ്രവർത്തിപ്പിക്കുമെന്ന് പ്രതീക്ഷിച്ചു അതിനാൽ അത് നവീകരണമാണ് രണ്ട് ആവശ്യമുള്ള കാര്യങ്ങൾ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്ന ആർക്കും ഡ്രയർ ഉപയോഗിക്കാം കാരണം ഈ രണ്ട് കാര്യങ്ങളും കൈകോർത്ത്പോകുന്നു അതുപോലെ തന്നെയാണ് ബ്ലെൻഡറുകൾ അതിനാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് വിവിധ കാര്യങ്ങൾ നിങ്ങൾക്കറിയാമോ ഞങ്ങൾക്ക് മുമ്പ് ഗ്യാസ് ഓവൻ ഗ്യാസ് സ്റ്റൌ എന്നിവ ഉണ്ടായിരുന്നു പിന്നെ ആരോ പറഞ്ഞു ശരി ഒരു കുക്കിംഗ് റേഞ്ച് സഹായകരമാകും എന്തുകൊണ്ടെന്നാൽ രണ്ടും പ്രവർത്തിക്കാൻ ഗ്യാസ് വേണം പിന്നെ നിങ്ങൾക്ക് ഒരു അടുപ്പുണ്ട് അത് ഒരു വാതക സ്രോതസ്സ് അല്ലെങ്കിൽ വൈദ്യുതി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൊണ്ടാണ് പ്രവർത്തിക്കുന്നത് അതിനാൽ നിങ്ങൾ നവീകരിക്കുന്നു നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഒരുമിച്ച് ചേർക്കുന്നു അതിനാൽ അതിനെ നവീകരണ തന്ത്രമായി കാണാം മെച്ചപ്പെടുത്തൽ തന്ത്രം ഉൽപ്പന്നം അല്ലെങ്കിൽ സേവന നിലവാരം വർദ്ധിപ്പിക്കുക അതിനാൽ നിങ്ങളുടെ എതിരാളികളെക്കാൾ ഒരു നേട്ടം നേടുന്നതിന് നിങ്ങൾ പറയുന്നു ശരി ഞങ്ങൾ അതേ ഉൽപ്പന്നം ആണ് വാഗ്ദാനം ചെയ്യുന്നത് പക്ഷേ ഞങ്ങൾ നിങ്ങൾക്ക് അതോടൊപ്പം മികച്ച സേവനം വാഗ്ദാനം ചെയ്യും എന്നാൽ ഇത് മികച്ച സേവനമാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം കാരണം ഞങ്ങൾ നന്നാക്കുനതെന്തും അത് നിങ്ങൾക്ക് കൂടുതൽ കാലം നിലനിൽക്കും അതിനാൽ ഒരിക്കൽ അറ്റകുറ്റപ്പണി നടത്തുന്നയാൾ നിങ്ങളുടെ വീട്ടിൽ വന്നാൽ അടുത്ത ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് അറ്റകുറ്റപ്പണികളുടെ ആവശ്യമുണ്ടാകില്ലെന്ന് ഞങ്ങൾ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു എന്ത് അറ്റകുറ്റപ്പണി നടത്തിയാലും അടുത്ത ഒരു വർഷത്തേക്ക് തകരാതിരിക്കാൻ ഞങ്ങൾ ചെയ്യുന്ന ജോലി നന്നായി ചെയ്യും അതിന് ഞങ്ങൾ നിങ്ങൾക്ക് ഒരു ഗ്യാരണ്ടി തരാം അതിനാൽ അത് മെച്ചപ്പെടുത്തൽ തന്ത്രമാണ് ഒന്നുങ്കിൽ നിങ്ങൾ ഉൽപ്പന്നം മികച്ചതാക്കുക അല്ലെങ്കിൽ ഉദാഹരണത്തിന് ഞാൻ കഴിഞ്ഞ ദിവസം ചില വാഷിംഗ് മെഷീനുകൾ നോക്കുകയായിരുന്നു അപ്പോൾ ഞാൻ ഒരു പരസ്യം കണ്ടു ബ്രാൻഡ് ഞാൻ മറന്നു എനിക്കറിയാമായിരുന്നെങ്കിലും വിശദാംശങ്ങൾ ഇവിടെ നിങ്ങളുമായി പങ്കിടാൻ എനിക്ക് കഴിഞ്ഞില്ല പക്ഷേ വാഷിംഗ് മെഷീൻ തുരുമ്പെടുക്കില്ല ആ രീതിയിൽ എന്തോ അതിൽ ഉണ്ടായിരുന്നു അവർ പറഞ്ഞു അത്തരം ഗുണനിലവാരമുള്ള വസ്തുകളാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് അത് തുരുമ്പെടുക്കില്ല നിങ്ങൾക്കറിയാം അത് വെള്ളത്തിലായിരിക്കും പക്ഷേ അതിന് ഒന്നും സംഭവിക്കില്ല ഇത് ലോഹമാണ് പക്ഷേ അതിന് ഒരു സംരക്ഷണ ആവരണം നൽകിയിരിക്കുന്നു അതിനാൽ അതിൽ ഒന്നും സംഭവിക്കില്ല അതിനാൽ ഇവിടെ ഇത് പഴയത് തന്നെയാണ് പക്ഷെ നമ്മൾ ആ ഉൽപ്പന്നം മികച്ചതാക്കി ഇതാണ് നേട്ടം നേടാനുള്ള ഒരു മാർഗം നിങ്ങളുടെ എതിരാളികളെക്കാൾ നേട്ടമുണ്ടാക്കാൻ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന മൂന്നാമത്തെ തന്ത്രം ചെലവ് കുറയ്ക്കലാണ് നിങ്ങൾ അതേ കാര്യം തന്നെ കുറഞ്ഞ വിലയ്ക്ക് വാഗ്ദാനം ചെയ്യുന്നു അതിനാൽ നിങ്ങൾ ഒരേ ഗുണനിലവാരമുള്ള എന്തെങ്കിലും ഉണ്ടാക്കുന്നു എന്നാൽ നിങ്ങൾ വില കുറയ്ക്കുന്നു ഒരുപക്ഷേ നിങ്ങൾ ഫ്രില്ലുകൾ കുറയ്ക്കും ഒരുപക്ഷേ നിങ്ങൾ സൌന്ദര്യവൽക്കരണത്തിന് വേണ്ടിയുള്ള ഒരു കാര്യം കുറച്ചേക്കാം കൂടാതെ നിങ്ങൾ വില കുറയ്ക്കുന്നു വില കുറയുമ്പോൾ ആളുകൾ അത് വാങ്ങാൻ ആഗ്രഹിക്കുന്നു പ്രത്യേകിച്ചും ഗുണനിലവാരം സമാനമാണെങ്കിൽ എച്ച്ആർഎമ്മിന്റെ തന്ത്രപരമായ സിദ്ധാന്തങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യുന്ന ആദ്യത്തെ സിദ്ധാന്തം സ്ഥാപനത്തിന്റെ വിഭവാധിഷ്ഠിത വീക്ഷണമാണ് അതിനാൽ നമ്മൾ സ്ട്രാറ്റജിക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്നെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ സംസാരിക്കുന്നത് വിവിധ സിദ്ധാന്തങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ആദ്യത്തെ സിദ്ധാന്തം സ്ഥാപനത്തിന്റെ വിഭവാധിഷ്ഠിത വീക്ഷണമാണ് ഈ സിദ്ധാന്തമനുസരിച്ച് കോംപിറ്റേറ്റിവ് അഡ്വാന്റ്റേജ്സ് ഫേം റിസോഴ്സ് ഹെറ്ററോജെനിറ്റി ഫേം റിസോഴ്സ് അചഞ്ചലത എന്നിവയുടെ സാഹചര്യങ്ങളിൽ മാത്രമേ ഉണ്ടാകൂ സംഘടനയുടെ വിഭവ വൈവിധ്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ സംസാരിക്കുന്നത് വിഭവങ്ങളുടെ വിശാലമായ ഒരു കൂട്ടത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് നമുക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുന്ന വൈവിധ്യമാർന്ന വിഭവങ്ങളെക്കുറിച്ചാണ് നമുക്ക് ഒരു വലിയ വൈവിധ്യമാർന്ന വിഭവങ്ങളുണ്ടെങ്കിൽ തിരഞ്ഞെടുക്കാനും നമ്മുടെ എതിരാളികളെക്കാൾ ഒരു നേട്ടം കൈവരിക്കാനും നമുക്ക് കഴിയും കൂടാതെ സംഘടനയുടെ റിസോഴ്സ് ഇമ്മോബിലിറ്റി മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് നേടാനുള്ള മത്സര സ്ഥാപനങ്ങളുടെ കഴിവില്ലായ്മയുമായി പ്രത്യേകം ഇടപെടുന്നു അതിനാൽ നമ്മുടെ ഉപഭോക്താക്കൾക്ക് നമ്മുടെ പക്കലുള്ള വിഭവങ്ങളുടെ വലിയ ശേഖരത്തെ അടിസ്ഥാനമാക്കി നമ്മൾ ഒരു വലിയ അടിസ്ഥാന കാര്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു കൂടാതെ നമ്മൾക്ക് ചില വിഭവങ്ങൾ ഉണ്ട് അത് മാത്രമേ നമുക്ക് ലഭിക്കൂ ഉദാഹരണത്തിന് വസ്ത്രനിർമ്മാണ കമ്പനികളിൽ കുക്കി കട്ട് വസ്ത്രങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ സ്റ്റാൻഡേർഡ് കട്ട് വസ്ത്രങ്ങൾ ഉള്ളവരാണ് നിങ്ങൾ ചില കടകളിൽ പോകുമ്പോൾ ഒന്നിന് പുറകെ ഒന്നായി തൂങ്ങിക്കിടക്കുന്ന ഒരേ നിറത്തിലുള്ള കുർത്തകൾ നിങ്ങൾക്ക് കാണാം എന്നിട്ട് നിങ്ങൾ മറ്റൊരു കടയിലേക്ക് പോകുക അവർക്ക് ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്ത കുർത്തകൾ ഉണ്ട് കൂടാതെ എംബ്രോയിഡറി ഒരു പ്രത്യേക തരത്തിലുള്ളതാണ് നിങ്ങൾക്ക് അത് എവിടെയും കിട്ടില്ല അതിനാൽ അത് വളരെ അദ്വിതീയമാണ് ഒപ്പം അങ്ങനെ ആ എംബ്രോയിഡറി ആവർത്തിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ നിങ്ങൾ ഒരു കാർ വാങ്ങുക കൂടാതെ ആ കാറിൽ കൈകൊണ്ട് വരച്ച ഡിസൈനുകൾ ഉണ്ട് മറ്റൊരാൾക്ക് പുനസൃഷ്ടിക്കാൻ കഴിയാത്ത ഈ ഡിസൈനുകൾ വരയ്ക്കുന്നതോ അല്ലെങ്കിൽ കാർ ആർട്ട് സൃഷ്ടിക്കുന്നതോ ആയ ആരോ നിങ്ങളുടെ കടയിൽ ഇരിക്കുന്നുണ്ട് അതിനാൽ അത്തരമൊരു കാര്യം അവിടെയുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഉപഭോക്താക്കളുടെ ചോദ്യങ്ങളോട് വ്യക്തിപരമായി പ്രതികരിക്കുന്ന ആരെങ്കിലും നിങ്ങൾക്കുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പക്കലുള്ള എന്തെങ്കിലും നിങ്ങളുടെ എതിരാളികൾക്ക് വളരെ എളുപ്പത്തിൽ പകർത്താൻ കഴിയില്ല അതിനാൽ അത് നിങ്ങൾക്ക് ഒരു നേട്ടം നൽകുന്നു നൽകപ്പെട്ട റിസോഴ്സ് ഹെറ്ററോജെനിറ്റി റിസോഴ്സ് അചഞ്ചലത മൂല്യം അപൂർവ്വത അപൂർണ്ണമായ അനുകരണം എന്നിവയുടെ ആവശ്യകതകളുടെ സംതൃപ്തി അതിനാൽ പൂർണ്ണമായും പകർത്താൻ കഴിയില്ല കൂടാതെ പകരം വയ്ക്കാത്തത് മറ്റെന്തെങ്കിലും കൊണ്ട് പൂർണ്ണമായും പകരം വയ്ക്കാൻ കഴിയാത്ത ഒന്ന് ഒരു സ്ഥാപനത്തിന്റെ വിഭവങ്ങൾ സുസ്ഥിരമായ കോംപിറ്റേറ്റിവ് അഡ്വാൻറ്റേജ് ഉറവിടമാകാം വിഭവാധിഷ്ഠിത സിദ്ധാന്തത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ വിഭവങ്ങളാണ് നമ്മുടെ ഏറ്റവും വലിയ ആസ്തിയെന്ന് നമ്മൾ പറയുന്നു നമ്മുടെ വിഭവങ്ങൾ എത്രത്തോളം പകരം വയ്ക്കാൻ കഴിയാത്തവ ആണോ ആരെങ്കിലും നമുക്ക് ഒപ്പം എത്താനുള്ള സാധ്യത അത്രേം കുറയുന്നു അതിനാൽ വൈവിധ്യമാർന്ന വിഭവങ്ങളും പകരം വയ്ക്കാനാവാത്ത വിഭവങ്ങളും വളരെ മൂല്യവത്തായ വിഭവങ്ങളും മത്സരാധിഷ്ഠിത നേട്ടം നേടുന്നതിന് നമ്മളെ സഹായിക്കും കൂടാതെ കമ്പനിയുടെ തന്ത്രപരമായ ലക്ഷ്യങ്ങളുമായി മാനവ വിഭവശേഷി വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ തന്ത്രപരമായി വിന്യസിക്കുന്നതിനായി നമ്മൾ ഈ വിഭവങ്ങൾ വികസിപ്പിക്കുന്നു രണ്ടാമത്തെ സിദ്ധാന്തം പെരുമാറ്റ വീക്ഷണമാണ് അതിനാൽ ആദ്യത്തെ സിദ്ധാന്തത്തിൽ നമുക്ക് ഉണ്ടായിരുന്ന ഭൌതിക വിഭവങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത് ഈ സിദ്ധാന്തത്തിൽ ജീവനക്കാരുടെ പെരുമാറ്റത്തെ കുറിച്ച് കർശനമായ തന്ത്രം സംഘടനയുടെ പ്രകടനം എന്നിവയുടെ ഇടനിലക്കാരൻ എന്ന നിലയിൽ നമ്മൾ സംസാരിക്കും ജീവനക്കാരുടെ മനോഭാവവും പെരുമാറ്റവും ഉയർത്തിപ്പിടിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുക എന്നതാണ് വിവിധ തൊഴിൽ രീതികളുടെ ഉദ്ദേശ്യമെന്ന് ഇത് അനുമാനിക്കുന്നു ഓർഗനൈസേഷനുകൾക്ക് ഏറ്റവും ഫലപ്രദമാകുന്ന നിർദ്ദിഷ്ട മനോഭാവങ്ങളും പെരുമാറ്റങ്ങളും വ്യത്യസ്തമായിരിക്കും സ്ട്രാറ്റജിക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ പശ്ചാത്തലത്തിൽ ഓർഗനൈസേഷണൽ സ്ട്രാറ്റജി ഉൾപ്പെടെയുള്ള ഓർഗനൈസേഷന്റെ വിവിധ സവിശേഷതകളെ ആശ്രയിച്ച് ഓർഗനൈസേഷൻ സ്ട്രാറ്റജിക്ക് ആവശ്യമായ റോൾ ബിഹേവിയറുകളിലെ ഈ വ്യത്യാസങ്ങൾക്ക് ആ സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനും വ്യത്യസ്ത എച്ച്ആർഎം രീതികൾ ആവശ്യമാണ് അതിനാൽ നമ്മൾ സംസാരിക്കുന്നത് ജീവനക്കാരുടെ പെരുമാറ്റത്തെക്കുറിച്ചാണ് ഒരു ഓർഗനൈസേഷന്റെ ജീവനക്കാർ എന്ന നിലയിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുവരുന്ന പെരുമാറ്റങ്ങളുടെ വൈവിധ്യം പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലെ വൈവിധ്യം എന്നിവയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് സ്ട്രാറ്റജിക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നത് ഒരു പ്രവർത്തനമാണ് എത്ര നന്നായി നമ്മൾ ബാങ്കിംഗ് നടത്തുന്നു എത്ര നന്നായി നമ്മൾ ഓർഗനൈസേഷന് പ്രയോജനകരമായ പെരുമാറ്റങ്ങൾ ഉപയോഗിക്കുന്നു എത്ര നന്നായി നമ്മൾ ആ സ്വഭാവങ്ങൾ പുറത്തുകൊണ്ടുവരുന്നു അത് എത്ര നന്നായി എടുത്തുകളയുന്നു കൂടാതെ ഓർഗനൈസേഷന്റെ ഉൽപ്പാദനക്ഷമതയ്ക്കായി നമ്മൾ ഈ പെരുമാറ്റങ്ങൾ എത്ര നന്നായി ഉപയോഗിക്കുന്നു ഒരേ രീതിയിൽ എല്ലാവരും പെരുമാറാൻ നമ്മൾ ലക്ഷ്യമിടുന്നില്ല നമ്മളുടെ ജീവനക്കാർ പെരുമാറുന്ന രീതി സ്റ്റാൻഡേർഡൈസ് ചെയ്യുകയല്ല നമ്മൾ ലക്ഷ്യമിടുന്നത് നമ്മൾ ബാങ്കിംഗ് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ നമ്മളുടെ ജീവനക്കാർ മുന്നോട്ട് കൊണ്ടുവരുന്ന വ്യത്യസ്ത സ്വഭാവങ്ങൾ വ്യത്യസ്ത മനോഭാവങ്ങൾ വ്യത്യസ്തമായ ഇടപെടൽ രീതികൾ വ്യത്യസ്ത സാഹചര്യങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുന്നു കൂടാതെ അതാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി കൂടാതെ അത് നമ്മുടെ തന്ത്രപരമായ ലക്ഷ്യങ്ങളെ ഓർഗനൈസേഷന്റെ തന്ത്രപരമായ ലക്ഷ്യങ്ങളുമായി വിന്യസിക്കാൻ നമ്മളെ സഹായിക്കുന്നു പെരുമാറ്റ വീക്ഷണം ഇപ്പോൾ എച്ച്ആർഎം സമ്പ്രദായങ്ങളെ സംഘടന പ്രകടനവുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള ഷുലറിന്റെയും ജാക്സണിന്റെയും മാതൃകയാണ് Schuler and Jackson's model ഇത് നിങ്ങൾക്ക് ബിസിനസ് സവിശേഷതകൾ റോൾ വിവരങ്ങൾ എന്നിവയുണ്ട് അതിനാൽ ജീവനക്കാർ വഹിക്കുന്ന റോളിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ആവശ്യമാണ് കൂടാതെ നിങ്ങൾ ഇത് മെഷ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ ഇത് ബിസിനസ്സ് സവിശേഷതകളിലേക്ക് ചേർക്കുക കൂടാതെ മാനവ വിഭവശേഷി സമ്പ്രദായങ്ങളെ പോഷിപ്പിക്കുന്ന ആവശ്യമായ റോൾ പെരുമാറ്റങ്ങളെക്കുറിച്ച് ജീവനക്കാർക്ക് പറഞ്ഞുകൊടുക്കുന്നു തുടർന്ന് കൂടുതൽ റോൾ വിവരങ്ങൾ നൽകുന്നു കൂടാതെ യഥാർത്ഥ റോൾ പെരുമാറ്റങ്ങളാണ് ഔട്ട്പുട്ട് കൂടാതെ ഈ റോൾ പെരുമാറ്റങ്ങൾ ഓർഗനൈസേഷനെ അതിന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നു ചില ജീവനക്കാരുടെ മത്സര തന്ത്രങ്ങൾക്കായിയുള്ള റോൾ പെരുമാറ്റങ്ങൾ പ്രവചനാത്മകത വേഴ്സസ് സർഗ്ഗാത്മകതയും നവീകരണവുമാണ് വളരെ പ്രവചിക്കാവുന്ന ഇൻപുട്ടുകൾ തരുന്ന ആളുകൾ നമുക്ക് ഉണ്ടായിരിക്കണം കൂടാതെ സർഗ്ഗാത്മകവും നൂതനവുമായ ആളുകളും നമ്മൾക്ക് ആവശ്യമാണ് അതിനാൽ ഈ ശ്രേണി ഇവിടെ ചർച്ചചെയ്യുന്നു കൂടാതെ ഇത് ഷുലറും ജാക്സണും എഴുതിയ ഒരു സെമിനാർ പേപ്പറിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഹ്രസ്വകാല വേഴ്സസ് ദീർഘകാല ശ്രദ്ധ ചില ആളുകൾ അവർ എങ്ങനെ അവരുടെ ജോലിക്കായി ആസൂത്രണം ചെയ്യുന്നു സഹകരണവും പരസ്പരാശ്രിതത്വവും വേഴ്സസ് സ്വാതന്ത്ര്യവും സ്വയംഭരണവും ചില ആളുകൾക്ക് കൂടുതൽ സഹകരണം കൂടുതൽ ടീം ഓറിയന്റഡ് ആയത് ആവശ്യമുണ്ട് ചില ആളുകൾ കൂടുതൽ സ്വയംഭരണാധികാരമുള്ളവരാണ് അവരുടെ ചിന്തയിലും പ്രവർത്തനത്തിലും അവർ കൂടുതൽ സ്വതന്ത്രരാണ് ഗുണനിലവാരവും അളവും സംബന്ധിച്ച ആശങ്കയാണ് എച്ച്ആർ തന്ത്രങ്ങളെ സഹായിക്കുന്ന മറ്റൊരു സ്വഭാവം അത് ഓർഗനൈസേഷന്റെ തന്ത്രങ്ങളുമായി പൊരുത്തപ്പെടുന്നു റിസ്ക് എടുക്കാനുള്ള കഴിവും ഓറിയന്റേഷനും ചില ആളുകൾ റിസ്ക് എടുക്കുന്നവരാണ് ചിലർ വളരെ ജാഗ്രതയുള്ളവരാണ് രണ്ട് തരത്തിലുള്ള ആളുകളെയും നമുക്ക് സംഘടനയിൽ ആവശ്യമുണ്ട് പ്രക്രിയയെക്കുറിച്ചുള്ള ആശങ്ക ചില ആളുകൾ ഓർഗനൈസേഷനിൽ പിന്തുടരുന്ന പ്രക്രിയകൾക്ക് അർഹമായ പരിഗണന നൽകുന്നു ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതും ഒഴിവാക്കലും ചില ആളുകൾ ഉത്തരവാദിത്തം ഒഴിവാക്കാൻ ഇഷ്ടപ്പെടുന്നു ചില ആളുകൾ കൂടുതൽ കൂടുതൽ കാര്യങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഇഷ്ടപ്പെടുന്നു അവർ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നു മാറ്റത്തെ പ്രതിരോധിക്കുന്ന ചിലരുണ്ട് വളരെ വഴക്കമുള്ള ചില ആളുകളുണ്ട് രണ്ട് തരത്തിലുള്ള ആളുകളെയും നമുക്ക് സംഘടനയിൽ ആവശ്യമുണ്ട് കാരണം മാറ്റത്തെ പ്രതിരോധിക്കുന്ന ആളുകൾ കൂടുതൽ ജാഗ്രതയുള്ളവരായിരിക്കും കൂടാതെ കൃത്യമായ നടപടിക്രമങ്ങൾ പാലിക്കപ്പെടുന്നുവെന്ന് അവർ ഉറപ്പാക്കും കൂടാതെ കൂടുതൽ സന്നദ്ധതയുള്ള അല്ലെങ്കിൽ മാറ്റങ്ങൾക്ക് തുറന്ന സമീപനമുള്ള അല്ലെങ്കിൽ മാറാൻ കൂടുതൽ വഴക്കമുള്ള ആളുകൾ പുതിയ ദിശയിലേക്ക് നീങ്ങാൻ ഓർഗനൈസേഷനെ സഹായിക്കും അതിനാൽ രണ്ട് തരത്തിലുള്ള ജീവനക്കാരും വളരെ പ്രധാനമാണ് അവ്യക്തതയുടെയും പ്രവചനാതീതതയുടെയും സഹിഷ്ണുതയ്ക്കെതിരായ സ്ഥിരതയ്ക്കുള്ള മുൻഗണന എന്താണ് സംഭവിക്കുന്നത് എപ്പോൾ സംഭവിക്കുന്നു എന്ന് അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് അവർക്ക് വളരെ കൃത്യമായ വളരെ വ്യക്തമായ ശ്രദ്ധ ആവശ്യമാണ് കൂടാതെ അത് സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളിലും അവർക്ക് ഉറപ്പുണ്ടായിരിക്കണം കൂടാതെ അത് നല്ലതാണ് കാരണം അത് പ്രക്രിയകളെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു കൂടുതൽ സഹിഷ്ണുത പുലർത്തുകയും അവ്യക്തതയിലേക്ക് തുറക്കുകയും ചെയ്യുന്ന മറ്റ് ആളുകൾ ഉണ്ട് കൂടാതെ ഈ ആളുകൾ നല്ലവരാണ് കാരണം അവർ റിസ്ക് എടുക്കുന്നവരാണ് അവർ പുതുമയുള്ളവരാണ് ഓർഗനൈസേഷന് നീങ്ങാൻ കഴിയുന്ന പുതിയ ദിശകൾ പര്യവേക്ഷണം ചെയ്യാൻ അവർ കൂടുതൽ തയ്യാറാണ് നൈപുണ്യ ആപ്ലിക്കേഷന്റെ ശ്രേണി മറ്റൊന്നാണ് തൊഴിൽ പങ്കാളിത്തവും ഇടപഴകലും നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ എത്രത്തോളം ഇടപെടുന്നു എത്രത്തോളം ഇടപഴകുന്നു കൂടാതെ ഈ ശ്രേണി ഷുലറും ജാക്സണും സമാഹരിച്ച പെരുമാറ്റങ്ങളുടെ ഈ മുഴുവൻ പട്ടികയും നമ്മൾക്ക് മാനവ വിഭവശേഷി പ്രവർത്തനത്തിലൂടെ എച്ച്ആർ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ക്ഷമിക്കണം അതിന്റെ തന്ത്രപരമായ ലക്ഷ്യങ്ങൾ നേടാൻ മത്സര തന്ത്രങ്ങൾ വികസിപ്പിച്ച് ഓർഗനൈസേഷനെ അതിന്റെ എതിരാളികൾക്കിടയിൽ മത്സരപരമായ നേട്ടം നേടുന്നതിന് സഹായിക്കാനും നേട്ടങ്ങൾ കൈവരിക്കാനും സഹായിക്കാൻ ആവശ്യമായ പെരുമാറ്റങ്ങൾ മനസിലാക്കാൻ സഹായിക്കുന്നു സൈബർനെറ്റിക് സിസ്റ്റങ്ങളുടെ സിദ്ധാന്തമാണ് മറ്റൊരു സിദ്ധാന്തം അതിനാൽ സംഘടനകൾക്ക് തുറന്ന സംവിധാനമാണെന്ന് നമ്മൾക്ക് തോന്നുന്നു കൂടാതെ ഒരു ഔട്ട്പുട്ടും ഒരു ഇൻപുട്ടും ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നു അതിൽ ഒരുതരം പ്രക്രിയ ഉൾപ്പെടുന്നു കൂടാതെ ചില തരത്തിലുള്ള ഔട്ട്പുട്ട് ഉണ്ട് അതിനാൽ ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് ലൂപ്പ് ഇൻപുട്ട് പ്രോസസും ഔട്ട്പുട്ട് ലൂപ്പും കാലാകാലങ്ങളിൽ വരുന്ന ഫീഡ്ബാക്കിനൊപ്പം പൂർത്തിയായി കൂടാതെ ഈ ഇൻപുട്ട് ത്രൂപുട്ട് ഔട്ട്പുട്ട് ലൂപ്പ് എന്നിവ പരിഷ്കരിക്കാൻ നമ്മളെ സഹായിക്കുന്നു സൈബർനെറ്റിക് മോഡൽ ഇവിടെ കാണിച്ചിരിക്കുന്നു റൈറ്റും മക്മഹാനും ഈ പേപ്പറിൽ അത് നന്നായി വിവരിച്ചിട്ടുണ്ട് കൂടാതെ ഇൻപുട്ടിൽ എച്ച്ആർ അറിവ് കഴിവുകൾ കാര്യക്ഷമത എന്നിവ ഉൾപ്പെടുന്നു ത്രൂപുട്ട് എന്നത് എച്ച്ആർ പെരുമാറ്റങ്ങളാണ് അത് ഡ്യൂ പ്രോസസ്സ് പിന്തുടരാൻ നമ്മളെ സഹായിക്കുന്നു കൂടാതെ ഉൽപ്പാദനക്ഷമത സംതൃപ്തി വിറ്റുവരവ് ലാഭം മുതലായവയാണ് ഔട്ട്പുട്ട് ഇപ്പോൾ അവർ സ്ഥാപനത്തിന്റെ തന്ത്രത്തിലേക്ക് ആവശ്യമായത് നൽകുന്നു കൂടാതെ സ്ഥിരമായ ഇൻപുട്ട് സ്ഥിരമായ ഫീഡ്ബാക്ക് എന്നിവ ഈ ഓരോ ഘട്ടങ്ങളിലേക്കും കടന്നുപോകുന്നു സംഘടന തന്ത്രത്തിന്റെ മൂല്യനിർണ്ണയത്തിലൂടെയും സ്ഥാപനത്തിന്റെ തന്ത്രത്തിന്റെ പുനർ സന്ദർശനത്തിലൂടെയും ഒപ്പം അത് ലൂപ്പ് പൂർത്തിയാക്കുന്നു അതിനാൽ ഇത് ഒരു യന്ത്രം പോലെയുള്ള ഒരു തരം ഡിസൈൻ ആണ് അതിനാൽ വീണ്ടും നമ്മൾ കാര്യങ്ങൾ കാണുകയാണെങ്കിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുവരുന്നതെന്തും ഇൻപുട്ട് ത്രൂപുട്ട് ഔട്ട്പുട്ട് എന്നിവയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ എങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നതും നമുക്ക് വസ്തുനിഷ്ഠമായി പട്ടികപ്പെടുത്താൻ കഴിയുമെങ്കിൽ കൂടാതെ സംഘടന ചെയ്യുന്നത് എന്തുതന്നെയായാലും നമുക്ക് വസ്തുനിഷ്ഠമായി പട്ടികപ്പെടുത്താൻ കഴിയുമെങ്കിൽ അപ്പോൾ നഷ്ടപരിഹാരം റിവാർഡ് സംവിധാനങ്ങൾ റെക്കോർഡുകളുടെ പരിപാലനം മുതലായവ വളരെ എളുപ്പമായിത്തീരുന്നു അല്ലെങ്കിൽ അത് സുഗമമാക്കുന്നു അതിനാൽ ഓർഗനൈസേഷന്റെ തന്ത്രപരമായ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് തന്ത്രപരമായ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എങ്ങനെ സഹായിക്കുമെന്ന് വിശദീകരിക്കുന്ന മറ്റൊരു മാതൃകയാണിത് നമ്മുടെ രേഖകൾ പരിപാലിക്കുന്നതിൽ നമ്മൾക്ക് കൂടുതൽ വ്യക്തത ഉണ്ടാകുമ്പോൾ നമ്മൾ കൂടുതൽ വസ്തുനിഷ്ഠമാകുമ്പോൾ കൂടാതെ വ്യവസ്ഥാപിതമായി കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ലാഭം നമുക്ക് നേടാൻ കഴിയും അല്ലെങ്കിൽ അത് തന്ത്രപരമായ ലക്ഷ്യങ്ങൾ ഓർഗനൈസേഷനുമായും ആ തന്ത്രപരമായ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനായി എന്താണ് ആവശ്യമുള്ളത് അതുമായും ക്രമീകരിക്കുന്നതിന് എന്താണ് വേണ്ടത് എന്നത് കൂടുതൽ വ്യക്തമാകും അതിനാൽ ഇൻപുട്ടുകൾ തീർച്ചയായും ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ അവ വ്യക്തികളുടെ കഴിവുകളാണ് ത്രൂപുട്ട് എന്നത് സംഘടനാ സംവിധാനത്തിലെ ആ വ്യക്തികളുടെ പെരുമാറ്റമാണ് കൂടാതെ ഔട്ട്പുട്ടിൽ പ്രകടനവും ഫലവത്തായ ഫലങ്ങളും അടങ്ങിയിരിക്കുന്നു സ്വാധീനം വികാരങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ഇടപഴകലുമായി ബന്ധപ്പെട്ടതാണ് പ്രതിബദ്ധതയുമായി ബന്ധപ്പെട്ടതാണ് സൈബർനെറ്റിക് മാതൃകയിൽ സ്ട്രാറ്റജിക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്തം കോംപിറ്റൻസി മാനേജ്മെന്റ് എന്നത് ഓർഗനൈസേഷനിലെ വ്യക്തികൾക്ക് തന്നിരിക്കുന്ന സംഘടനാ തന്ത്രം നടപ്പിലാക്കാൻ ആവശ്യമായ കഴിവുകൾ ഉണ്ടെന്ന് ഉറപ്പാക്കാൻ ഓർഗനൈസേഷൻ ചെയ്യുന്ന കാര്യങ്ങളാണ് കോംപിറ്റൻസി മാനേജ്മെന്റ് ഇതിൽ നമുക്ക് നാല് വ്യത്യസ്ത വഴികളുണ്ട് അതിൽ നമുക്ക് കഴിവുകൾ കൈകാര്യം ചെയ്യാൻ കഴിയും ആദ്യത്തേത് കോംപിറ്റൻസി ആക്ക്വിസിഷൻ ആണ് നമ്മൾ കഴിവുകളിൽ ഏർപ്പെടുന്നു അല്ലെങ്കിൽ കഴിവുകൾ നേടുന്നു ഓർഗനൈസേഷനിലെ വ്യക്തികൾക്ക് ആവശ്യമായ കഴിവുകൾ ഉണ്ടെന്ന് ഉറപ്പാക്കാൻ ശ്രമിക്കുന്ന പരിശീലനവും തിരഞ്ഞെടുപ്പും പോലുള്ള പ്രവർത്തനങ്ങളെ ഇത് സൂചിപ്പിക്കുന്നു മുൻകാല തന്ത്രത്തിന് കീഴിൽ ഒളിഞ്ഞിരിക്കുന്ന കഴിവുകൾ അല്ലെങ്കിൽ അനാവശ്യമെന്ന് കരുതിയ കഴിവുകൾ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്ന പ്രവർത്തനങ്ങളെയാണ് കോമ്പിറ്റെൻസി യൂട്ടിലൈസേഷൻ കൈകാര്യം ചെയ്യുന്നത് അതിനാൽ കഴിവുകളും കാര്യക്ഷമതയും നേടുക എന്നിട്ട് ആ കഴിവുകൾ പ്രയോജനപ്പെടുത്തുക കഴിവ് നിലനിർത്തുക എന്നാൽ സ്ഥാപനത്തിലെ കഴിവുകളും കാര്യക്ഷമതയും നിലനിർത്തുക എന്നതാണ് കൂടാതെ ഓർഗനൈസേഷണൽ സ്ട്രാറ്റജിക്ക് ഇനി ആവശ്യമില്ലാത്ത കഴിവുകൾ ഇല്ലാതാക്കാൻ ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് കോമ്പിറ്റെൻസി ഡിസ്പ്ലേസ്മെന്റ് ആ കഴിവുകൾ നിലനിർത്തുക തുടർന്ന് സിസ്റ്റത്തിൽ നിന്ന് പുറത്തുപോകേണ്ടത് എന്താണെന്ന് മനസ്സിലാകുന്നു നമ്മൾക്ക് ഉള്ളതും ഇനി ആവശ്യമില്ലാത്തതുമായ പക്ഷേ പണം നൽകുന്നതുമായ കഴിവുകൾ മാറ്റിസ്ഥാപിക്കുക അല്ലെങ്കിൽ പരിഷ്ക്കരിക്കുക അല്ലെങ്കിൽ ആ കഴിവുകൾ ഇല്ലാതാക്കുക തന്ത്രപരമായ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ മറ്റൊരു ഉത്തരവാദിത്തം ബിഹേവിയർ മാനേജ്മെന്റ് ആണ് ഒരിക്കൽ ആവശ്യമായ വൈദഗ്ധ്യമുള്ള വ്യക്തികൾ ഓർഗനൈസേഷനിൽ ആയിക്കഴിഞ്ഞാൽ പിന്നെ അവർ ഓർഗനൈസേഷണൽ സ്ട്രാറ്റജിയെ പിന്തുണയ്ക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നു എന്ന് ഉറപ്പാക്കുന്നു അതിനാൽ പെരുമാറ്റം നിയന്ത്രിക്കൽ പെരുമാറ്റം നിരീക്ഷിക്കൽ പ്രകടന മൂല്യനിർണ്ണയങ്ങൾ ശമ്പള സംവിധാനങ്ങൾ പെരുമാറ്റ ഏകോപനം മുതലായവയും ബിഹേവിയറൽ കോർഡിനേഷൻ സംഘടനാ തന്ത്രത്തെ പിന്തുണയ്ക്കുന്ന വ്യക്തികളുടെ പെരുമാറ്റം ഏകോപിപ്പിക്കാൻ ശ്രമിക്കുന്ന മൂല്യനിർണ്ണയം സംഘടനാ വികസന പ്രവർത്തനങ്ങൾ തുടങ്ങിയ ഇടപാടുകൾ നടത്തുന്നു അതിനാൽ ഒന്ന് നിയന്ത്രണവും മറ്റൊന്ന് കോർഡിനേറ്റുമാണ് വ്യത്യസ്ത പ്രവർത്തനങ്ങളുടെ വ്യത്യസ്ത ജീവനക്കാരുടെ പെരുമാറ്റം എന്നിവ തമ്മിലുള്ള പരസ്പര ബന്ധങ്ങൾ കൈകാര്യം ചെയ്യുന്നു അപ്പോൾ ഇവിടത്തെ നാലാമത്തെ സിദ്ധാന്തം ഏജൻസി അല്ലെങ്കിൽ ഇടപാട് ചെലവ് സിദ്ധാന്തമാണ് ഇടപാട് ചെലവുകൾ കക്ഷികൾ തമ്മിലുള്ള കൈമാറ്റങ്ങൾ ചർച്ചകൾ നിരീക്ഷിക്കൽ വിലയിരുത്തൽ നടപ്പാക്കൽ എന്നിവയുമായി ബന്ധപ്പെട്ട ചെലവുകളാണ് കൂടാതെ കക്ഷികൾ തമ്മിലുള്ള എക്സ്ചേഞ്ചുകൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടി അവ സംഭവിക്കുന്നു അതുപോലെ കക്ഷികൾ തമ്മിലുള്ള കാര്യക്ഷമമായ കരാർ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ചെലവുകളാണ് ഏജൻസി ചെലവുകൾ കൂടാതെ ഞാൻ ഈ അവസാന ഖണ്ഡിക വായിക്കാം കാരണം ഇത് മനസ്സിലാക്കുക എന്നത് നിങ്ങൾക്ക് വളരെ പ്രധാനമാണെന്ന് എനിക്ക് തോന്നുന്നു ട്രാൻസാക്ഷൻ കോസ്റ്റ് അപ്പ്രോച്ചിന്റെ കേന്ദ്ര ആധാരം ജീവനക്കാർക്ക് അവരുടെ പ്രകടനം ഒഴിവാക്കാനോ കുറയ്ക്കാനോ ഉള്ള ശക്തമായ പ്രോത്സാഹനങ്ങൾ ഉണ്ട് അത് ഗ്രൂപ്പിലെ മറ്റുള്ളവരുടെ ശ്രമങ്ങളെ ആശ്രയിക്കുന്നു കൂടാതെ അവരുടെ പ്രകടനം വർദ്ധിപ്പിക്കുന്നതിന് പ്രോത്സാഹന സമ്മാനങ്ങൾ നൽക്കുന്നില്ല ടാസ്ക് വ്യവസ്ഥകൾ ജീവനക്കാരെ അവരുടെ അതുല്യമായ സംഭാവനകൾ പ്രകടിപ്പിക്കാനും ഈ സംഭാവനകളിൽ നിന്ന് പ്രയോജനം നേടാനും അനുവദിക്കുന്നു അതിനാൽ നമ്മളുടെ പ്രകടനം ഉപേക്ഷിക്കുകയോ കുറയ്ക്കുകയോ ചെയ്തുകൊണ്ട് ഗ്രൂപ്പിലെ മറ്റുള്ളവരുടെ ശ്രമങ്ങളെ ആശ്രയിക്കുവാനുള്ള പ്രവണത നമ്മൾക്കുണ്ട് കൂടാതെ നമ്മളുടെ പ്രകടനം വർധിപ്പിക്കാനും നമുക്ക് എന്തുചെയ്യാൻ കഴിയുമെന്ന് തെളിയിക്കാനും നമ്മൾക്ക് ഒരു പ്രത്യേക പ്രോത്സാഹനം ഇല്ലെങ്കിൽ അതുപോലെ നമ്മളുടെ സംഭാവനകൾ എങ്ങനെ ഫലപ്രദമാണെന്ന് കാണാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ ഒന്നും ചെയ്യാൻ ആഗ്രഹിക്കില്ല ഒരു സ്ഥാപനത്തിന്റെ മത്സര തന്ത്രം വിവിധ കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു സാമ്പത്തിക സാഹചര്യങ്ങൾ വ്യവസായ ഘടന വ്യതിരിക്തമായ കഴിവ് മത്സര നേട്ടം ഉൽപന്നവും വിപണിയും ഇവയെല്ലാമാണ് ഒരു സ്ഥാപനത്തിന്റെ മത്സര തന്ത്രം നിർണ്ണയിക്കുന്ന വിവിധ കാര്യങ്ങൾ മാനവ വിഭവശേഷി മാനേജ്മെന്റിന്റെ തന്ത്രപരമല്ലാത്ത മാതൃകകളുമായി നമ്മൾ ഇടപെടില്ല പക്ഷേ മനുഷ്യവിഭവശേഷി തന്ത്രം എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയാം മനുഷ്യവിഭവശേഷി തന്ത്രം പ്രധാനമായും തൊഴിൽ വിപണി ആളുകൾ മുന്നോട്ട് കൊണ്ടുവരുന്ന കഴിവുകളും മൂല്യങ്ങളും സംഘടന പ്രവർത്തിക്കുന്ന സാമ്പത്തിക സാഹചര്യങ്ങളും സംസ്കാരവും എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു കൂടാതെ തന്ത്രപ്രധാനമായ മനുഷ്യവിഭവശേഷി എങ്ങനെയായിരിക്കണമെന്ന് വിശദീകരിക്കുന്ന ചില മാതൃകകൾ ചില കാര്യങ്ങൾ ഇവയാണ് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് ഫംഗ്ഷനിലെ തന്ത്രം എങ്ങനെ ഹ്യൂമൻ റിസോഴ്സ് ഫംഗ്ഷനുകളെ മറ്റ് ഓർഗനൈസേഷനുമായി വിന്യസിക്കുന്നതിനും നടത്തുന്നതിനും ഉപയോഗിക്കാം അടുത്ത ക്ലാസിൽ നമ്മൾ HRM ന്റെ തന്ത്രപരമല്ലാത്ത മോഡലുകളും സ്ട്രാറ്റജിക് HRM നുള്ള വെല്ലുവിളികളും കൈകാര്യം ചെയ്യും അപ്പോൾ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചതിന് നന്ദി അടുത്ത പ്രഭാഷണത്തിൽ നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ കാത്തിരിക്കുകയാണ്